എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 നെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മീൻ വാല്യൂ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും നമുക്ക് ഇതുവരെ പഠിച്ച ആശയങ്ങളിലൂടെ കടന്നുപോകാം ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം നമ്മൾ ചർച്ച ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മുമ്പത്തെ പ്രഭാഷണത്തിന്റെ വിപുലീകരണമാണ് അവിടെ നമ്മൾ പഠിച്ച റോളിന്റെ സിദ്ധാന്തം Rolle's Theorem ഉണ്ട് മറ്റൊരു സാമാന്യവൽക്കരിച്ച ഒരു മീൻ വാല്യൂ സിദ്ധാന്തം അല്ലെങ്കിൽ കോഷി മീൻ വാല്യൂ സിദ്ധാന്തം ഇന്നത്തെ പ്രഭാഷണത്തിലും ചർച്ചചെയ്യപ്പെടും മുമ്പത്തെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് ഓർമിക്കാം ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റെർവെല്ലിൽ a b കണ്ടിന്യൂവസും ഓപ്പൺ ഇന്റെർവെല്ലിൽ a b ഡിഫറെൻഷിയബിളും a b എന്നിവയിലെ ഫംഗ്ഷൻ മൂല്യം തുല്യവുമാണ് തുടർന്ന് ഓപ്പൺ ഇന്റെർവെല്ലിൽ a b ഡെറിവേറ്റീവ് അപ്രത്യക്ഷമാകുന്ന ഒരു സംഖ്യ നിലവിലുണ്ട് ജ്യാമിതീയ വ്യാഖ്യാനം ഈ കണക്കിൽ നിന്ന് വ്യക്തമാണ് നമുക്ക് f എന്ന ഫംഗ്ഷൻ ഉണ്ട് അത് കണ്ടിന്യൂവസും ഡിഫറെൻഷിയബിളുമാണ് a b എന്നിവയിലെ ഫംഗ്ഷൻ മൂല്യം രണ്ടും തുല്യമാണ് അപ്പോൾ x അക്ഷത്തിന് സമാന്തരമായി ടാൻജെന്റ് ഇവിടെ ഒരു പോയിന്റ് c ഉണ്ട് ഇപ്പോൾ ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തത്തിലേക്ക് വരുന്നത് എഫ് എന്ന പ്രവർത്തനം റോളിന്റെ പ്രമേയത്തിന്റെ മുമ്പത്തെ അവസ്ഥകളോട് സാമ്യമുള്ളതും ഓപ്പൺ ഇന്റെർവെല്ലിൽ ab ഡിഫറെൻഷിയബിളുമാണ് രണ്ട് അവസാന പോയിന്റുകളിൽ ഫംഗ്ഷൻ തുല്യമായിരുന്ന മൂന്നാമത്തെ വ്യവസ്ഥ ഇവിടെ ആവശ്യമില്ല ഇത് കൂടുതൽ പൊതുവായതും നിയന്ത്രണാതീതവുമാണ് ഈ സാഹചര്യത്തിൽ വീണ്ടും ഓപ്പൺ ഇന്റെർവെല്ലിൽ a b കുറഞ്ഞത് ഒരു ഘട്ടത്തിൽ ഡെറിവേറ്റീവിന് തുല്യമാകുന്ന ഒരു സംഖ്യയെങ്കിലും നിലവിലുണ്ട് ആദ്യം ഈ ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ ജ്യാമിതീയ വ്യാഖ്യാനം ചർച്ച ചെയ്യാം a b ചില ഇന്റർവെല്ലുകളിൽ കണ്ടിന്യൂവസും ഡിഫറെൻഷിയബിളുമായ ഒരു ഫംഗ്ഷൻ നമുക്കുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഈ ഘടകമെന്ന് നോക്കാം നിങ്ങൾ ഈ രണ്ട് പോയിന്റുകളും f f എന്നിങ്ങനെ ചേരുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ലൈൻ സെഗ്മെന്റ് ലഭിക്കും ഈ ലൈൻ സെഗ്മെന്റിന്റെ ചരിവ് എന്താണ് നമുക്ക് കണക്കുകൂട്ടാം ഈ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ഈ ത്രികോണം വരച്ചാൽ ഇവിടെ ഉയരം f ആയിരിക്കും കാരണം ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം f ഉം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം f ഉം ആണ് f - f ഈ ത്രികോണത്തിന്റെ ഉയരവും ഇവിടെ അടിസ്ഥാനം b - a ഉം ആണ് കാരണം ഈ പോയിന്റ് വരെ b ഉം ഈ പോയിന്റ് വരെ ഇവിടെ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് f ഉം ആണ് ഇവിടെ ഈ ദൂരം b - a ഉം ഇത് f - f ഉം ഇവിടെ ഈ ഘടകം f - f ആയിരുന്നു ഈ ലംബമായി സ്പേസ് b - a കൊണ്ട് ഹരിച്ചാൽ ഈ കോണിന്റെ ടാൻജെന്റ് ആയിരിക്കും അടിസ്ഥാനപരമായി ഇവിടെ ഈ പദപ്രയോഗം f - f ആയിരുന്നു ഈ വരിയുടെ സെഗ്മെന്റിന്റെ ചരിവാണ് ഒരു കർവിന്റെ ഈ രണ്ട് അവസാന പോയിന്റുകളും കണ്ടുമുട്ടുന്നതിലൂടെ നമ്മൾ വരച്ചതാണ് ഇപ്പോൾ ഈ സിദ്ധാന്തം ഡൊമെയ്നിലെ ഒരു ഘട്ടത്തിൽ ചരിവ് a മുതൽ b വരെ ഇത് f ' ക്കു തുല്യമാകുമെന്ന് പറയുന്നു ജ്യാമിതീയ അർത്ഥം അവ കുറഞ്ഞത് ഒരു ടാൻജെന്റായിരിക്കും എന്നതാണ് ഈ പ്രത്യേക സന്ദർഭത്തിൽ ഈ ലൈൻ സെഗ്മെന്റിന് സമാന്തരമായ ഈ മൂന്ന് ടാൻജെന്റുകൾ നമുക്ക് കാണാൻ കഴിയും ഈ ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം പറയുന്നത് ഈ രണ്ട് പോയിന്റുകളുമായി ചേരുന്ന ഈ ലൈൻ സെഗ്മെന്റിന് സമാന്തരമായി ടാൻജെന്റ് ഒരു പോയിന്റെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് കർവിന്റെ അവസാന പോയിന്റുകൾ ഞാൻ ഇവിടെ മറ്റൊരു വിധത്തിൽ എഴുതിയതുപോലെ ഈ ഇന്റെർവെല്ലിൽ കുറഞ്ഞത് ഒരു ടാൻജെന്റെങ്കിലും ഉണ്ട് അത് കർവിന്റെ അവസാന പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ലൈൻ സെഗ്മെന്റിന് സമാന്തരമാണ് ഈ ഫംഗ്ഷൻ പരിഗണിക്കുകയാണെങ്കിൽ തെളിവ് വളരെ ലളിതമാണ് നിങ്ങൾ ഈ ഫംഗ്ഷനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് അടിസ്ഥാനപരമായി രണ്ട് ഫംഗ്ഷനുകളുടെ വ്യത്യാസമാണ് f മൈനസ് ചില കോൺസ്റ്റന്റ് തവണ x ക്ലോസ്ഡ് ഇന്റെർവെല്ലിൽ a b f കണ്ടിന്യൂവസും ഓപ്പൺ ഇന്റെർവെല്ലിൽ a b x എന്നിവ ഡിഫറെൻഷിയബിളും ചെയ്യുന്നുവെങ്കിൽ ആ ഇന്റർവെല്ലുകളിൽ കണ്ടിന്യൂവസും ഡിഫറെൻഷിയബിളും ആയ ഒരു ഫംഗ്ഷൻ കൂടിയാണെങ്കിൽ ഈ വ്യത്യാസം ക്ലോസ്ഡ് ഇന്റെർവെല്ലിൽ a b കണ്ടിന്യൂവസും ഓപ്പൺ ഇന്റെർവെല്ലിൽ a b ഡിഫറെൻഷിയബിളും ആയരിക്കും ഈ ഫംഗ്ഷന്റെ ക്രമീകരണം പൂർത്തിയായതിനാൽ നിങ്ങൾ ഇവിടെ ഉദാഹരണത്തിന് a b പോയിന്റിൽ കണക്കുകൂട്ടിയാൽ ഈ രണ്ട് മൂല്യങ്ങളും തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കും

ഞാൻ അപ്പോൾ ലളിതമാക്കുകയാണെങ്കിൽ ഇത് bf - af ആയിത്തീരുകയും പിന്നീട് f - af മൈനസ് ചെയ്യുകയും ഈ b a കൊണ്ട് ഹരിക്കുകയും ചെയ്യും ഇത് ഒരു f റദ്ദാക്കപ്പെടും തുടർന്ന് നമുക്ക് bf - afb - a ലഭിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ f കണക്കുകൂട്ടിയാൽ ഇവിടെ നിങ്ങൾക്ക് f f f ൽ ഈ കോഴ്സ് മൈനസ് ചെയ്യുകയും ഈ b a കൊണ്ട് ഹരിക്കുകയും പിന്നീട് b ഞാൻ ഇപ്പോൾ ഇത് ലളിതമാക്കുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ ഈ bf റദ്ദാക്കുകയും നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു ആദ്യകാലത്തും നമ്മൾക്ക് ലഭിച്ചു ഫംഗ്ഷൻ a b എന്നിവയിൽ ഒരേ മൂല്യമാണ് എടുക്കുന്നത് നമ്മൾ വീണ്ടും ഓർമിക്കുകയാണെങ്കിൽ രണ്ട് എൻഡ് പോയിന്റുകളിലും ഫംഗ്ഷന് ഒരേ മൂല്യമുണ്ടായിരിക്കണമെന്നതിന്റെ കണ്ടിന്യൂവസും ഡിഫറെൻഷ്യബിലിറ്റിയും ഒഴികെയുള്ള റോളിന്റെ പ്രമേയമായിരു ന്നു വ്യവസ്ഥ ഈ സാഹചര്യത്തിൽ ഈ പ്രവർത്തനം റോളിന്റെ സിദ്ധാന്തത്തിന്റെ എല്ലാ വ്യവസ്ഥകളെയും തൃപ്തിപ്പെടുത്തുന്നു എന്ന ഫംഗ്ഷനിൽ നമുക്ക് റോളിന്റെ സിദ്ധാന്തം പ്രയോഗിക്കാൻ കഴിയും ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് നൽകും ' x മൈനസിന്റെ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവിന് തുല്യമാണ് ഇവിടെ f - f കൊണ്ട് ഈ b a കൊണ്ട് വിഭജിച്ച് x ന്റെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും കൂടാതെ റോളിന്റെ സിദ്ധാന്തം പറയുന്നത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആകുന്ന ഒരു ബിന്ദു ഉണ്ടാകും ഇപ്പോൾ നമ്മൾ റോളിന്റെ സിദ്ധാന്തം പ്രയോഗിച്ചാൽ ϕ0 ഉം ഓപ്പൺ ഇന്റെർവെല്ലിലെ a b ഇന്റെർവെല്ലിൽ ചില c യും ആയിരിക്കും ഇത് കൃത്യമായി 0 ആണെന്നും ഇത് ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം അനുസരിച്ചു f ' ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം തെളിയിക്കുന്നതിന് ഇവിടെ ഈ ഫംഗ്ഷന്റെ നിർമ്മാണം പ്രധാനമായിരുന്നു ഇത് ϕ ഇവിടെ റോളിന്റെ പ്രമേയത്തിന്റെ എല്ലാ ഗുണങ്ങളും തൃപ്തിപ്പെടുത്തുന്നു കൂടാതെ ഈ ഫംഗ്ഷനിൽ റോളിന്റെ പ്രമേയം പ്രയോഗിക്കാൻ നമ്മൾക്ക് കഴിയും ഒപ്പം ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം ലഭിക്കുകയും ചെയ്യും മറ്റൊന്ന് സാമാന്യവൽക്കരിച്ച മീൻ വാല്യൂ സിദ്ധാന്തം ഉണ്ട് ഇതിനെ കോഷി മീൻ വാല്യൂ സിദ്ധാന്തം എന്നും വിളിക്കുന്നു ഇവിടെ ഒന്നിന് പകരം രണ്ട് ഫംഗ്ഷനുകൾ നമ്മൾ പരിഗണിക്കും f g എന്നിവ ക്ലോസ്ഡ് ഇന്റെർവെല്ലിൽ കണ്ടിന്യൂവസായ രണ്ട് ഫംഗ്ഷനുകളാണെങ്കിൽ ഓപ്പൺ ഇന്റെർവെല്ലിൽ a b ഡിഫറെൻഷിയബിളും കൂടാതെ g ന്റെ ഡെറിവേറ്റീവ് g' ഇന്റർവെൽയ്ക്കുള്ളിൽ എവിടെയും 0 ആകില്ല തുടർന്ന് ഓപ്പൺ ഇന്റെർവെല്ലിൽ a b ഒരു പോയിന്റ് c നിലനിൽക്കുന്നു അതായത് c പോയിന്റിൽ ഈ f g എന്നിവയുടെ ഡെറിവേറ്റീവ് ഈ അനുപാതത്തിന് തുല്യമാണ് തെളിവ് വീണ്ടും ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ മുമ്പത്തെ തെളിവുമായി സാമ്യമുള്ളതാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ ഫംഗ്ഷൻ സജ്ജമാക്കുകയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നിർവചിക്കുകയോ ചെയ്യുന്നു ഈ ഘടകത്തെ ഇവിടെ മൈനസ് ചെയ്യുക ഇത് ഈ കോഷി മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ ഫലമായി വരും അത് g g കൊണ്ട് ഗുണിക്കും എഫ് ജി എന്നിവയ്ക്ക് സമാനമായ വാദം വീണ്ടും ക്ലോസ്ഡ് ഇന്റെർവെല്ലിൽ കണ്ടിന്യൂവസും ഓപ്പൺ ഇന്റെർവെല്ലിൽ ab ഡിഫറെൻഷിയബിളും ആയരിക്കും നൽകിയ ഇന്റർവെല്ലുകളിൽ കണ്ടിന്യൂവസും ഡിഫറെൻഷിയബിളും ആണ് മാത്രമല്ല അതായത് f f ഇവിടെ ഇത് 0 ഉം g g ഉം 0 ആണെന്ന് ഇവിടെ കണ്ടാൽ എല്ലാം 0 ആണ് ϕ 0 ഉം ϕ f f g ഉം ആണ് ഈ g g ഈ g g ഉപയോഗിച്ച് റദ്ദാക്കപ്പെടും തുടർന്ന് നമുക്ക് f f മൈനസ് ഈ f f ഇത് വീണ്ടും 0 ആണ് ഈ സാഹചര്യത്തിൽ ϕ 0 ഉം ϕ 0 ഉം റോളിന്റെ പ്രമേയത്തിന്റെ എല്ലാ വ്യവസ്ഥകളും തൃപ്തിപ്പെടുത്തുന്നു ഈ ഫംഗ്ഷനിലേക്ക് റോളിന്റെ സിദ്ധാന്തം പ്രയോഗിക്കാൻ നമ്മൾക്ക് കഴിയും റോളിന്റെ സിദ്ധാന്തം പ്രയോഗിക്കുന്നു എന്നാൽ അതിനുമുമ്പ് ഇവിടെ ഒരു കാര്യം പറയേണ്ടതുണ്ട് ഇത് നന്നായി നിർവചിക്കപ്പെടുന്നു കാരണം ഈ g g 0 ലേക്ക് പോകരുത് അതായത് g g ന് തുല്യമാകരുത് എന്തുകൊണ്ടാണ് g g ന് തുല്യമാകാൻ കഴിയാത്തത് ഈ കോഷി മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ അനുമാനങ്ങളിൽ നമ്മൾ നേരിട്ട് അത്തരം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇന്റർവെൽയ്ക്കുള്ളിൽ എവിടെയും g അപ്രത്യക്ഷമാകില്ല എന്ന ഒരു അധിക വ്യവസ്ഥ കൂടി ഉണ്ടായി ഈ g g ന് തുല്യമാണെങ്കിൽ നമുക്ക് g എന്ന ഫംഗ്ഷനിൽ റോളിന്റെ സിദ്ധാന്തം വീണ്ടും പ്രയോഗിക്കാൻ കഴിയും അത് ഓപ്പൺ ഇന്റെർവെല്ലിൽ a b ഒരു പോയിന്റ് c ഉണ്ടായിരിക്കുമെന്ന് പറയും ഡെറിവേറ്റീവ് അപ്രത്യക്ഷമാകും പക്ഷേ g സിദ്ധാന്തത്തിന്റെ അനുമാനമനുസരിച്ച് ഇന്റർവെൽയ്ക്കുള്ളിൽ എവിടെയും അപ്രത്യക്ഷമാകില്ല ഇത് തുല്യമാകരുത് ഈ g g ന് തുല്യമാവുകയും ഇത് അനന്തമായിത്തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല ഫംഗ്ഷൻ നന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ആണ് ഇത് കണ്ടിന്യൂവസും g ϕ ϕ ന് തുല്യവുമാണ് റോളിന്റെ പ്രമേയത്തിന്റെ എല്ലാ വ്യവസ്ഥകളും ഈ ഫംഗ്ഷന് തൃപ്തികരമാണ് നമ്മൾ ഇപ്പോൾ റോളിന്റെ സിദ്ധാന്തം ഫംഗ്ഷനിൽ പ്രയോഗിച്ചാൽ ഇവിടെ നൽകിയിരിക്കുന്ന ഫലം നമുക്ക് കൃത്യമായി ലഭിക്കും കാരണം ϕ f ന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും തുടർന്ന് ഇത് ഇവിടെ സ്ഥിരമായിരിക്കും മൈനസ് വീണ്ടും ഈ പദപ്രയോഗവും g ന്റെ ഡെറിവേറ്റീവ് ഇത് വീണ്ടും എന്തായിരിക്കും ഞാൻ ഈ ഘട്ടത്തിലേക്ക് വരട്ടെ അതിനാൽ റോളിന്റെ സിദ്ധാന്തം x പോയിന്റിൽ c ന് തുല്യമാണെന്നും ഇത് 0 ന് തുല്യമാണെന്നും പറയുന്നു അപ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുക ഈ g കൊണ്ട് ഹരിച്ചാൽ അതാണ് കോഷി മീൻ വാല്യൂ സിദ്ധാന്തം അല്ലെങ്കിൽ സാമാന്യവൽക്കരിച്ച മീൻ വാല്യൂ സിദ്ധാന്തം നമ്മൾ ജ്യാമിതീയ അർത്ഥം അല്ലെങ്കിൽ ഈ കോഷിയുടെ മീൻ വാല്യൂ സിദ്ധാന്തം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ x g നൽകിയ ഈ പാരാമെട്രിക് കർവ് പരിഗണിക്കുന്നു g എന്നത് അവിടെ നൽകിയിരിക്കുന്ന ഫംഗ്ഷനാണ് പക്ഷേ ഞാൻ ഈ പാരാമീറ്റർ t അവതരിപ്പിച്ചു ഇത് സാധാരണയായി പാരാമെട്രിക് കർവുകൾക്ക് ഉപയോഗിക്കുന്നു കൂടാതെ y മറ്റ് ഫംഗ്ഷന് തുല്യമാണ് f ഈ അടുത്ത ഇന്റെർവെല്ലിൽ t a മുതൽ b വരെ വ്യത്യാസപ്പെടുന്നു ഈ പാരാമെട്രിക് കർവ് നിങ്ങൾക്ക് t യുടെ മൂല്യങ്ങൾ വ്യത്യാസപ്പെടുത്തി കണ്ടെത്താനാകും ഉദാഹരണത്തിന് t a ആണെങ്കിൽ നമുക്ക് ഇവിടെ x കോർഡിനേറ്റ് g ഉം ഈ പോയിന്റിലെ y കോർഡിനേറ്റ് f ഉം ഉണ്ട് ഈ പോയിന്റ് g f ആണ് എന്നിട്ട് നമ്മൾ വ്യത്യാസപ്പെടുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഈ കർവിലേക്ക് നീങ്ങും നമ്മൾ ഈ കർവ് കണ്ടെത്തും ഇവിടെ അവസാന സ്ഥാനത്ത് എത്തുന്നതുവരെ t b ന് തുല്യമാണ് g f ഇപ്പോൾ ജ്യാമിതീയ അർത്ഥം ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തത്തിലെ മുമ്പത്തെ ഫലത്തിന് സമാനമാണ് ഈ രണ്ട് സെഗ്മെന്റുകളും ഈ ലൈൻ സെഗ്മെന്റിൽ ചേരുകയാണെങ്കിൽ അവർ ഈ പ്രമേയം പറയുന്നു ഒന്നാമതായി ഈ ലൈൻ സെഗ്മെന്റിന്റെ ചരിവ് ഇത് നൽകും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ വാദം കാരണം ഉയരം f - f ആയിരിക്കും ഈ ത്രികോണത്തിന്റെ അടിസ്ഥാനം g - g ആയിരിക്കും ഇതാണ് ഈ ലൈൻ സെഗ്മെന്റിന്റെ ചരിവ് തുടർന്ന് ഇവിടെ വലതുവശത്ത് ഈ കർവിൽ കുറഞ്ഞത് ഒരു പോയിന്റെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു അവിടെ ടാൻജെന്റ് ഈ ഘടകരേഖയ്ക്ക് സമാന്തരമായിരിക്കും നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ f g എന്നാൽ ചില ഘട്ടങ്ങളിൽ ടാൻജെന്റ് ലൈനിന്റെ ചരിവ് c കാരണം ചരിവ് ഒരു ഘട്ടത്തിൽ ഇവിടെ dy dx എന്നതിന് തുല്യമാണ് പാരാമെട്രിക് കർവിന് ഇത് dy dt ആയി വിഭജിക്കുകയും dx dt കൊണ്ട് വിഭജിക്കുകയും y x കൊണ്ട് ഹരിക്കുകയും ചെയ്യും കൂടാതെ ഈ y അടിസ്ഥാനപരമായി f ആണ് ഇവിടെ നിങ്ങൾക്ക് g ന് മുകളിലുള്ള f ഉണ്ട് ഇന്റെർവെല്ലിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാകുമെന്ന് ഈ സിദ്ധാന്തം പറയുന്നു t എന്നത് c ന് തുല്യമാണ് ഈ ടാൻജെന്റ് ലൈനിന്റെ ഈ ചരിവ് നമുക്ക് f എന്ന് g കൊണ്ട് ഹരിക്കാം ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വേഗത്തിൽ സംഗ്രഹിക്കാം ഇതാണ് പൊതുവൽക്കരിച്ച മീൻ വാല്യൂ സിദ്ധാന്തം g x ആണെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കും g x എന്നതിനർത്ഥം ഇവിടെ നിങ്ങൾക്ക് ഈ g b ഉണ്ടെന്നും ഈ g a g എന്നിവ ഇവിടെ 1 മാത്രമായിരിക്കും ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ലഭിക്കും ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം കാരണം ആ നിഗമനം ആയിരിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ g x എടുക്കുമ്പോൾ നമുക്ക് ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം ലഭിക്കും കൂടാതെ റോളിന്റെ പ്രമേയത്തിന് നമ്മൾക്കുള്ള അധിക വ്യവസ്ഥ f f ഇട്ടാൽ ഈ ലഗ്രാഞ്ചി അർത്ഥ മൂല്യ സിദ്ധാന്തത്തിന് എന്ത് സംഭവിക്കും f f ഇവിടെ ഈ അളവ് 0 ആകും തുടർന്ന് നമുക്ക് f 0 ലഭിക്കും ഇതാണ് സാമാന്യവൽക്കരിച്ച മീൻ വാല്യൂ സിദ്ധാന്തം ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ g x ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം ലഭിക്കും കൂടാതെ മറ്റൊരു വ്യവസ്ഥ കൂടി ചേർത്താൽ f f റോളിന്റെ മീൻ വാല്യൂ സിദ്ധാന്തം നമുക്ക് ലഭിക്കും അത് f 0 ആണ് ഇപ്പോൾ നമ്മൾ ഈ ഉദാഹരണങ്ങളിലേക്ക് പോകും ആദ്യത്തേത് മീൻ വാല്യൂ സിദ്ധാന്തം ഉപയോഗിച്ച് ഈ അസമത്വം cos ex -cos ey ≤ x - y x y ≤ 0 ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ടും തുല്യമാകുമ്പോൾ y തുല്യമാണ് പിന്നെ സ്വാഭാവികമായും ഈ കോസ് cos ex -cos ey അത് 0 ന് തുല്യമാണ് സമത്വത്തിൽ സ്വാഭാവികമായും സംതൃപ്തിയുണ്ട് x y എന്നിവ രണ്ടും തുല്യമാകുമ്പോൾ അവ സമാനമല്ലാത്തപ്പോൾ നമ്മൾ കേസ് പരിഗണിക്കും ഇപ്പോൾ f മറ്റൊരു പ്രവർത്തനം cos et ആയി കണക്കാക്കുന്നു കാരണം ശരാശരി മൂല്യം സിദ്ധാന്തം ഉപയോഗിച്ച് ഈ y തെളിയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമായി കാണാൻ കഴിയും ഈ ഇന്റെർവെല്ലിൽ x y f എന്ന ഫംഗ്ഷൻ നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ x ≠ y ആണെന്ന് അനുമാനിക്കുന്നു ഇപ്പോൾ ഈ ഫലത്തിൽ നമുക്ക് ലഭിക്കുന്ന മീൻ വാല്യൂ സിദ്ധാന്തം നമ്മൾ പ്രയോഗിക്കുന്നു എന്നതിന് തുല്യമാണ് ഈ ഇന്റർവെൽ ഓപ്പൺ ഇന്റെർവെല്ലിൽ x y ചില പോയിന്റുകൾ ഉണ്ടാകും കൂടാതെ ഈ ഘടകത്തിന്റെ മൂല്യം f ന് തുല്യമായിരിക്കും ഇതാണ് ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം ഇപ്പോൾ നമ്മൾ ഈ ഡെറിവേറ്റീവിനെ കണക്കാക്കും കാരണം നമുക്ക് f കണക്കുകൂട്ടാൻ കഴിയുന്ന ഡെറിവേറ്റീവ് cos et ആണ് ഇരുവശത്തും കേവല മൂല്യം എടുക്കുമ്പോൾ നമുക്ക് ഈ ലഭിക്കുന്നു ഈ കേവല മൂല്യം വലതുവശത്തേക്ക് എടുക്കും x y കേവല മൂല്യവും ഈ f ന്റെ കേവല മൂല്യവും കേവല മൂല്യം കാരണം നമ്മൾ ഇത് കണക്കിലെടുത്തിട്ടില്ല നമുക്ക് ec sin ec ഉണ്ട് കാരണം ഇത് ഡെറിവേറ്റീവ് c പോയിന്റിൽ വിലയിരുത്തേണ്ടതുണ്ട് ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ പദപ്രയോഗത്തിന്റെ പരമാവധി മൂല്യം ഞാൻ ഇവിടെ എടുത്താൽ c x മുതൽ y വരെ വ്യത്യാസപ്പെടുന്നു നമ്മൾ ഈ x ൽ നിന്ന് y ലേക്ക് c എടുത്തു ഇതിന്റെ പരമാവധി മൂല്യം നമ്മൾ എടുക്കും c ഈ x y ഓപ്പൺ ഇന്റർവെല്ലിന്റെതാണെന്നത് ശ്രദ്ധിക്കുക അതിനാൽ ഇത് അടിസ്ഥാനപരമായി c 0 എന്ന നെഗറ്റീവ് സംഖ്യയാണ് കാരണം x y എന്നിവ രണ്ടും 0 ന് തുല്യമാണ് അതിനാൽ c കർശനമായി 0 നേക്കാൾ കുറവായിരിക്കും ഓപ്പൺ ഇന്റെർവെല്ലിൽ Sin എല്ലായ്പ്പോഴും 1 നേക്കാൾ കുറവാണ് കൂടാതെ ഈ നെഗറ്റീവ് ആർഗ്യുമെന്റിന്റെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ c എല്ലായ്പ്പോഴും 1 ൽ കുറവായിരിക്കും കാരണം e0 1 ഉം എല്ലാ നെഗറ്റീവ് മൂല്യങ്ങൾക്കും മൂല്യം കുറവാണ് പോസിറ്റീവ് മൂല്യങ്ങൾക്ക് 1 എന്നത് 1 ൽ കൂടുതൽ എടുക്കും ഇത് കർശനമായി 1 ൽ കുറവാണ് ഇത് 1 ന് തുല്യമാണ് ഇവിടെ ഈ പദപ്രയോഗം അല്ലെങ്കിൽ ഈ ഡെറിവേറ്റീവിന്റെ പരമാവധി മൂല്യം 1 കൊണ്ട് കർശനമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ അസമത്വം നമ്മൾക്ക് ലഭിച്ചു

രണ്ടാമത്തെ ഉദാഹരണം ഈ f ക്ലോസ്ഡ് ഇന്റർവെൽ 2 മുതൽ 2 വരെയുള്ള ഡിഫറൻസിബിൾ ഫംഗ്ഷനാണെന്നും മൂല്യം 2 ആയി നൽകിയിട്ടുള്ളത് 1 ന് തുല്യമാണെന്നും f നെ 5 ആയി നൽകുമെന്നും ഇവിടെ മറ്റൊരു വിവരങ്ങൾ ഉണ്ട് f ഈ ഇന്റർവെൽ 2 മുതൽ 2 വരെയുള്ള x ന്റെ എല്ലാ മൂല്യങ്ങൾക്കും f 1 കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ മീൻ വാല്യൂ സിദ്ധാന്തം ഉപയോഗിച്ച് 0 എന്ന ഫംഗ്ഷന്റെ മൂല്യം കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ പ്രശ്നം പരിശോധിച്ച് f ന്റെ മൂല്യം കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 2 മുതൽ 0 വരെയും 2 മുതൽ 0 വരെയുമുള്ള ഇന്റെർവെല്ലിൽ മീൻ വാല്യൂ സിദ്ധാന്തം അല്ലെങ്കിൽ ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം പ്രയോഗിക്കേണ്ടതുണ്ട് ഈ f നെക്കുറിച്ച് നമുക്ക് ചില എസ്റ്റിമേറ്റ് ലഭിക്കും നമുക്ക് ലഭിക്കുന്നത് 2 മുതൽ 0 ഇന്റർവെല്ലുകളിൽ ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം ഓപ്പൺ ഇന്റർവെൽ 2 മുതൽ 0 വരെ ചില c1 നിലനിൽക്കുന്നതിന് തുല്യമാണ് അതിനാൽ ഈ മൂല്യം ആ ഘട്ടത്തിൽ c1 ലെ ഡെറിവേറ്റീവിന് തുല്യമായിരിക്കും ഇപ്പോൾ ഇവിടെ f ' നെ 1 കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ f ' ന്റെ എസ്റ്റിമേറ്റ് നമുക്കറിയാം ഇത് എല്ലായ്പ്പോഴും 1 നും 1 നും ഇടയിലാണ് ഈ പദപ്രയോഗം എന്താണ് അതിനാൽ f - 1 2 നും 1 നും ഇടയിൽ വിഭജിക്കുന്നു കാരണം ഇത് ഡെറിവേറ്റീവിന് തുല്യവും ഡെറിവേറ്റീവ് 1 ന് തുല്യമായ കേവല മൂല്യത്തിന് തുല്യവുമാണ് ഇവിടെ ഈ പദപ്രയോഗം 1 നും 1 നും ഇടയിലാണ് ഇപ്പോൾ ഈ 2 നെ നമ്മൾ ഇരുവശത്തും ഗുണിച്ചാൽ അല്ലെങ്കിൽ ഈ അസമത്വത്തിലേക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 2 ≤ f - 1 ≤ 2 ലഭിക്കും തുടർന്ന് അസമത്വത്തിലേക്ക് ഈ 1 ചേർക്കാം f ന് തുല്യമായ 3 കുറവും അതിനേക്കാൾ തുല്യവുമാണ് ഇവിടെ ലഭിക്കുക ഇവിടെ മൈനസ് 2 പ്ലസ് 1 ഉണ്ടായിരുന്നു അതിനാൽ മൈനസ് 1 ഉം പിന്നീട് ഇവിടെ 2 ഉം പ്ലസ് 1 ഉം നമുക്ക് 3 ലഭിക്കും ഈ അസമത്വത്തിൽ നിന്ന് നമുക്ക് 1 ≤ f ≤ 3 ലഭിക്കും 0 മുതൽ 2 വരെയുള്ള ഇന്റെർവെല്ലിൽ നിങ്ങൾ ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം ഉപയോഗിക്കുകയാണെങ്കിൽ 0 മുതൽ 2 വരെയുള്ള ഇന്റെർവെല്ലിൽ നമുക്ക് ലഭിക്കും ചില ഘട്ടങ്ങളിൽ c2 ആദ്യത്തെ ഡെറിവേറ്റീവിന് തുല്യമാണ് ഇവിടെ വീണ്ടും f 5 ആണെന്ന് അറിയപ്പെടുന്നു അതിനാൽ നമുക്ക് ഇവിടെ എന്താണ് ഉള്ളത് നമുക്ക് f ഉണ്ട് f നെ 5 എന്നും മൈനസ് ഈ f നെ 2 കൊണ്ട് ഹരിക്കുമെന്നും ഈ മൂല്യം വീണ്ടും മൈനസ് 1 1 എന്നിവയാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ഇത് ഇവിടെ ലഭിച്ചു ഇത് ഇത് സൂചിപ്പിക്കുന്നു നിങ്ങൾ ഇവിടെ മൈനസ് 1 കൊണ്ട് ഗുണിച്ചാൽ അസമത്വം മാറും അതിനാൽ ഈ അസമത്വം നമുക്ക് ഇപ്പോൾ f ≥ 3 ≤ 7 എന്നിവ ലഭിക്കും ഇത് f ≥ 3 എന്നാൽ ≤ 7 എന്ന് പറയുന്നു മുമ്പത്തെ അസമത്വം f ≤ 3 എന്ന് പറയുന്നു ഇവിടെ ഈ രണ്ട് അസമത്വങ്ങളാൽ f ≤ 3 f ≥ 3 എന്നിവ f 3 ആയിരിക്കണമെന്ന് നമ്മൾ നിഗമനം ചെയ്യും നമുക്ക് ലഭിച്ചത് 0 ലെ ഫംഗ്ഷന്റെ മീൻ വാല്യൂ സിദ്ധാന്തം ഉപയോഗിച്ചുള്ള മൂല്യം ആ ഡെറിവേറ്റീവുകളും അവസാന പോയിന്റുകളുടെ മൂല്യവും നൽകിയിട്ടുണ്ട് ഇവിടെ അവസാനത്തെ ഉദാഹരണം f ഫംഗ്ഷൻ ഇപ്പോൾ ഡെറിവേറ്റീവ് ആണെന്ന് എടുക്കുന്നു ഇപ്പോൾ f ലെ അതിരുകൾ കണക്കാക്കാൻ ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിൽ f ന്റെ കൃത്യമായ മൂല്യം സാധ്യമല്ല അതിനാൽ f ന്റെ താഴത്തെയും മുകളിലെയും പരിധി നമ്മൾ കണക്കാക്കും 0 മുതൽ 1 വരെയുള്ള ഇന്റെർവെല്ലിൽ നമ്മൾ ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ 1 കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു 0 മുതൽ 1 വരെ നമുക്ക് f f ഈ വ്യത്യാസം 1 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കും ആ സമയത്ത് ഡെറിവേറ്റീവിന് തുല്യമായ മൂല്യം ചില പോയിന്റുകളായിരിക്കുക ഈ അസമത്വത്തിൽ നിന്ന് ഇപ്പോൾ എന്താണ് ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ആണ് ഇപ്പോൾ ഇവിടെ c 0 നും 1 നും ഇടയിലാണെന്ന കാര്യം ശ്രദ്ധിക്കുക ഇതിന്റെ താഴത്തെ പരിധി ഈ c 0 ലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും അതായത് ഈ മൂല്യം എല്ലായ്പ്പോഴും 15 നേക്കാൾ വലുതാണ് ഇന്റെർവെല്ലിലെ c ഈ പരമാവധി മൂല്യത്തിലേക്ക് 1 ആയി എത്തുമ്പോൾ ഇത് 4 ആയി മാറും കൂടാതെ ഈ 1 ന് മുകളിലുള്ള 5 - c2 റിന്റെ പരമാവധി മൂല്യം ¼ ആയിരിക്കും ഡെറിവേറ്റീവ് 15 നും 14 നും ഇടയിലാണെന്ന് ഇപ്പോൾ നമുക്കറിയാം f - 2 15 നും 14 നും ഇടയിലാണെന്ന അസമത്വം ഇതുപയോഗിച്ച് നമ്മൾക്ക് ലഭിച്ചു നമുക്ക് മറുവശത്തേക്ക് പോകാം മാത്രമല്ല ഇത് ഇവിടെ വലതുവശത്ത് ചേർക്കേണ്ടതുണ്ട് ഇത് നമുക്ക് 115 കുറവും f ഉം പിന്നീട് 2 ഇവിടെ ചേർത്താൽ ഇത് 94 ആയിരിക്കും എഫ് ന് ഇത് 115 നും 94 നും ഇടയിലാണെന്ന് കണക്കാക്കുന്നു നമ്മൾ ഇവിടെ ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ ദി പിസ്കുനോവ് ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ് The Piskunov Differential and Integral Calculus ക്രെയിസിഗ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് Kreyszig Advanced Engineering Mathematics ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഉപസംഹാരം സാമാന്യവൽക്കരിച്ച മീൻ വാല്യൂ സിദ്ധാന്തം നമ്മൾ പഠിച്ചു ഈ g മറ്റ് ഫംഗ്ഷനെ രണ്ടാമത്തെ ഫംഗ്ഷനെ x എന്ന് മാറ്റിസ്ഥാപിക്കുമ്പോൾ ഒരു പ്രത്യേക സന്ദർഭമായി നമുക്ക് ലഗ്രാഞ്ചി മീൻ വാല്യൂ സിദ്ധാന്തം ലഭിക്കും ഒപ്പം എടുക്കുകയാണെങ്കിൽ f f ന് തുല്യമാണെന്ന മറ്റൊരു അനുമാനം ഇത് f 0 എന്ന് പറയുന്ന റോളിന്റെ സിദ്ധാന്തമായിരിക്കും ഇന്നത്തെ പ്രഭാഷണത്തിന് നന്ദി